ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് എങ്ങനെ നേടാമെന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് തുല്യമായിരിക്കണം ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്റർ ഇത് പോലെ കാണപ്പെടുന്നു ഈ വോൾട്ടേജ് ബഫർ അല്ലെങ്കിൽ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് തിരിച്ചറിയാൻ ഒരൊറ്റ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ MOS ട്രാൻസിസ്റ്റർ ഒരു ഗേറ്റ് വോൾട്ടേജിനെ സോഴ്സ് വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുന്നു അത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എടുക്കുകയും ഡ്രെയിൻ കറന്റ് ഉൽപാദിപ്പിക്കുന്നതിന് ചില സ്ഥിരമായ g m കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു അതിനാൽ കറന്റ് സോഴ്സ് വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് എത്രയാണെന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഗേറ്റ് വോൾട്ടേജിനെ സോഴ്സ് വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുന്നതായി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ ഒരു വോൾട്ടേജ് ബഫറിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് vovi ഇപ്പോൾ vivo ആണെങ്കിൽ vo മുകളിലേക്ക് തള്ളണം അത് വർദ്ധിപ്പിക്കണം നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു വോൾട്ടേജ് എങ്ങനെ വർദ്ധിപ്പിക്കും ഇതിനർത്ഥം കറന്റ് ഔട്ട്പുട്ട് നോഡിലേക്ക് തള്ളപ്പെടണം എന്നാണ് തീർച്ചയായും vi vo ആണെങ്കിൽ നേരെ വിപരീതമായി സംഭവിക്കണം v കുറയ്ക്കണം അല്ലെങ്കിൽ കറന്റ് ഔട്ട്പുട്ട് നോഡിൽ നിന്ന് പുറത്തേക്ക് പോകണം ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്ററിൽ എന്താണ് സംഭവിക്കുന്നത് VGS 0 ആണെങ്കിൽ ഈ വൈദ്യുതധാര ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു കൂടാതെ കറന്റ് സോഴ്സ് നോഡിലേക്ക് തള്ളിവിടുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ VGS 0 കറന്റ് സോഴ്സ് നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിനാൽ ഈ പ്രവർത്തനം സംഭവിക്കുന്ന തരത്തിൽ ഈ വോൾട്ടേജുകൾ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം vo ഔട്ട്പുട്ട് വോൾട്ടേജാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് താരതമ്യത്തിന്റെ ഭാഗമായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെ ഔട്ട്പുട്ട് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുന്നു എന്നതാണ് അതിനാൽ vgs ഒന്നുകിൽ vi vo അല്ലെങ്കിൽ vo - vi ആയിരിക്കണം ഇവയിൽ ഏതെങ്കിലും സാധ്യമാണ് vgs ഗേറ്റ് വോൾട്ടേജിനെ സോഴ്സ് വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുന്നു അതിനാൽ ഇത് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും ആയിരിക്കണം അത് vi vo അല്ലെങ്കിൽ vo - vi ആകാം vi vo 0 ആയിരിക്കുമ്പോൾ കറന്റ് ഔട്ട്പുട്ട് നോഡിലേക്ക് പോകണം vgs0 ആണെങ്കിൽ കറന്റ് MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സിലേക്ക് പോകുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ സോഴ്സ് നോഡിനെ ഔട്ട്പുട്ടായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജായി പ്രയോഗിക്കുന്നത് vi vo അല്ലാതെ മറ്റൊന്നുമല്ല കൂടാതെ vi vo 0 ആണെങ്കിൽ ഈ വൈദ്യുതധാര സോഴ്സ് നോഡിലേക്ക് താഴേക്ക് ഒഴുകുന്നു അത് സോഴ്സ് വോൾട്ടേജിലേക്ക് ഉയർത്തുന്നു ഇത് സോഴ്സ് നോഡിലേക്ക് ഒരു വൈദ്യുതധാരയെ തള്ളിവിടുന്നു ഇത് സോഴ്സ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നു അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പോളജി എങ്ങനെയായിരിക്കണമെന്ന് എനിക്കറിയാം അതിനാൽ ഈ കോമ്പിനേഷൻ മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ശ്രമിക്കാം ഞാൻ സോഴ്സിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തു അതിനാൽ അതിനുപകരം നിങ്ങൾക്ക് അത് ഡ്രെയിൻ നോഡിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സൌകര്യപ്രദമായി ക്രമീകരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾ പുതിയ സർക്യൂട്ട് സമന്വയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വ്യത്യസ്ത ചോയിസുകളിലൂടെ കടന്നുപോകാം അത് തെറ്റായിരിക്കാം പക്ഷേ ഒടുവിൽ നിങ്ങൾ ശരിയായ ഒരെണ്ണത്തിൽ എത്തിച്ചേരും അതിനാൽ ഇവിടെ തത്വം നെഗറ്റീവ് ഫീഡ്ബാക്കാണ് vi vo ആണെങ്കിൽ vo വർദ്ധിപ്പിക്കണം vi vo ആണെങ്കിൽ vo കുറയ്ക്കണം കറന്റ് സോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് അതിന്റെ വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതിന് ഒരു നോഡിലേക്ക് കറന്റ് തള്ളുകയും അതിന്റെ വോൾട്ടേജ് കുറയ്ക്കുന്നതിന് ഒരു നോഡിൽ നിന്ന് കറന്റ് പുറത്തെടുക്കുകയും വേണം അതിനാൽ ഞാൻ ഇത് വീണ്ടും വരയ്ക്കട്ടെ ഞാൻ ട്രാൻസിസ്റ്ററിന്റെ സ്മാൾ സിഗ്നൽ ചിത്രത്തിൽ നിന്ന് തുടങ്ങുന്നു അതിനാൽ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് പോലുള്ള പ്രവർത്തനം മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ഒരു ലീനിയർ ഫംഗ്ഷനായ vokvi അല്ലെങ്കിൽ vovi ആയിരിക്കും അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ചെറിയ സിഗ്നൽ ചിത്രം ഉപയോഗിച്ച് നമ്മൾ സിന്തസൈസ് ചെയ്യുന്നു ഇപ്പോൾ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാനുള്ള നിരവധി മാർഗങ്ങൾ നമുക്ക് അറിയാം കൂടാതെ സ്മാൾ സീഗ്നൽ ഇക്വിവാലന്റ് സർക്യൂട്ടോ അല്ലെങ്കിൽ മുഴുവൻ സർക്യൂട്ടോ നമുക്ക് ഉപയോഗിക്കാം അതിനാൽ ഈ സന്ദർഭങ്ങളിൽ ഓരോന്നിലും ഫംഗ്ഷണൽ സിന്തസൈസ് ചെയ്യുന്നത് ചെറിയ സിഗ്നൽ ഡൊമെയ്നിലാണ് ഇൻക്രിമെൻറ് ഡൊമെയ്നിൽ നിങ്ങൾക്ക് ഉചിതമായ ബയസ് ക്രമീകരണങ്ങളുണ്ട് ചിലതരം ബയസ് ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സൌകര്യപ്രദമാണെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ കൂടുതൽ സൌകര്യപ്രദമായതാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഞാൻ വീണ്ടും ചെയ്തത് ഗേറ്റിലേക്ക് ഇൻപുട്ട് പ്രയോഗിക്കുകയാണ് ഇവിടെ സോഴ്സ് നോഡ് ഉണ്ട് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജായിരിക്കും ഞാൻ അങ്ങനെ ചെയ്താൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vi vo ന് തുല്യമായിരിക്കും ഗേറ്റിനും സോഴ്സിനുമിടയിൽ നമുക്ക് vi vo അല്ലെങ്കിൽ vo-vi ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് അറിയാം അതിനാൽ ഇൻപുട്ടും ഔട്ട്പുട്ട് വോൾട്ടേജുകളും ഫലപ്രദമായി താരതമ്യം ചെയ്യാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് vi vo ആണ് ഇപ്പോൾ ഞങ്ങൾ ഇതിനകം തന്നെ ഈ സോഴ്സ് നോഡ് ഔട്ട്പുട്ട് നോഡായി എടുത്തു അത് സ്ഥിരത പുലർത്തുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ എവിടെയും കണക്റ്റു ചെയ്തിട്ടില്ലാത്ത ഡ്രെയിൻ ചെറിയ സിഗ്നൽ ഗ്രൌണ്ടിലേക്ക് കണക്റ്റുചെയ്യട്ടെ ഇപ്പോൾ vi vo അതായത് vo എന്നത് ആവശ്യമുള്ളതിനേക്കാൾ ചെറുതാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് vi vo തുടർന്ന് കറന്റ് ഈ വഴിയേ ഒഴുകുന്നു മുമ്പത്തെപ്പോലെ സോഴ്സിൽ കറന്റ് സോഴ്സ് മാത്രമേ ഉള്ളൂവെന്ന് ഓർമ്മിക്കുക അതിനാൽ കിർചോഫിന്റെ Kirchhoff's കറന്റ് നിയമം എങ്ങനെ തൃപ്തികരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ മറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടുകൾ പോലെ നിങ്ങൾ ഇവിടെ ഒരു പാരാസൈറ്റിക് കപ്പാസിറ്ററിനെ സങ്കൽപ്പിക്കുന്നു ഇത് ചെറുതായിരിക്കാം അത് എത്രയാണെന്നത് പ്രശ്നമല്ല കറന്റ് ഈ നോഡിലേക്ക് ആണെങ്കിൽ അത് കപ്പാസിറ്ററിലേക്ക് പോയി vo ക്രമേണ വർദ്ധിക്കുന്നു എന്നതാണ് കാര്യം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കാരണം ഇവിടെ ഈ സാഹചര്യത്തിൽ vo ആവശ്യമുള്ളതിനേക്കാൾ ചെറുതാണ് അതിനാൽ ഇത് വർദ്ധിപ്പിക്കും കൃത്യമായി വിപരീതമായി സംഭവിക്കും vi vo ആണെങ്കിൽ vo വളരെ ഉയർന്നതാണ് ഈ കറന്റ് മുകളിലേക്ക് വലത്തേക്ക് പോകുന്നു അത് ഈ നോഡിൽ നിന്ന് കറന്റ് പുറത്തേക്ക് പോകും അത് കപ്പാസിറ്ററിന്റെ കറന്റും ഔട്ട്പുട്ട് വോൾട്ടേജും കുറയ്ക്കും അതിനാൽ ഇത് സ്ഥിരമാണ് അടിസ്ഥാനപരമായി ചെറിയ സിഗ്നൽ ചിത്രം വോൾട്ടേജ് ബഫറിനായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ഡ്രെയിൻ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കാൻ കഴിയും കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇൻപുട്ട് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് പ്രയോഗിക്കുന്നു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഒരു പാരാസൈറ്റിക് കപ്പാസിറ്റർ സങ്കൽപ്പിക്കാൻ കഴിയും അതിലൂടെ vi vo ൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഈ കറന്റ് എവിടെയെങ്കിലും പോകുന്നത് നിങ്ങൾക്ക് കാണാനാകും ഔട്ട്പുട്ട് vo ട്രാൻസിസ്റ്ററിന്റെ സോഴ്സിൽ നിന്ന് എടുക്കുന്നു അതിനാൽ ഇതെല്ലാം സർക്യൂട്ട് ആണ് ഇപ്പോൾ വ്യക്തമായി ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ഥിരമായ അവസ്ഥയിൽ ഈ കപ്പാസിറ്ററിലൂടെയുള്ള ഈ കറന്റ് പൂജ്യമായിരിക്കണം അതായത് ഡിസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇതുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഈ കറന്റ് പൂജ്യമായിരിക്കണം ഈ കറന്റ് എങ്ങനെ പൂജ്യമാകും vgs പൂജ്യമാണെങ്കിൽ മാത്രമേ ഈ കറന്റ് പൂജ്യമാകൂ vgs പൂജ്യമായിരിക്കണം vo vi ഔട്ട്പുട്ടും ഇൻപുട്ട് വോൾട്ടേജുകളും തുല്യമായിരിക്കണം ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ നിങ്ങൾക്ക് പരിചിതമാണ് ആദ്യം vo vi യിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സങ്കൽപ്പിക്കുക തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കുക സ്ഥിരമായ ഒരു വൈദ്യുതധാരയിൽ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നതിനിടയിലാണ് നമ്മൾ ഇത് ചെയ്തത് നമ്മൾ വീണ്ടും അതേ കാര്യം ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂവെന്ന് കാണാൻ കഴിയും vgs പൂജ്യത്തിന് തുല്യമായിരിക്കണം ഈ പ്രത്യേക ടോപ്പോളജി എങ്ങനെയാണ് vo vi നേടുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതന്നു വരാനിരിക്കുന്ന പാഠങ്ങളിൽ നമ്മൾ ഇത് വിശകലനം ചെയ്യുകയും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുകയും ചെയ്യും അതിനാൽ കുറഞ്ഞത് ഇപ്പോൾ നമുക്ക് vo vi എന്ന് ബോധ്യപ്പെടണം കാരണം vo vi ഇതിന് ഒരു ഗെയിൻ k 1 ന് തുല്യമാണ് കൂടാതെ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന്റെ അഭികാമ്യമായ ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പൂജ്യവുമാണ് അതിന്റെ ഒരു ഭാഗമെങ്കിലും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇത് കാണാൻ വളരെ എളുപ്പമാണ് ഇൻപുട്ട് ഇതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഗേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മുഴുവൻ സോഴ്സ് ഞാൻ കാണിച്ചിട്ടില്ല ഗേറ്റ് കറന്റ് പൂജ്യമാണ് അതിനാൽ ഇൻപുട്ട് ഒരു കറന്റും എടുക്കുന്നില്ല അതിനാൽ ഇൻപുട്ട് പ്രതിരോധം അനന്തമാണെന്ന് ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമായിരിക്കണം അതിനാൽ ആ ഭാഗം തൃപ്തിപ്പെടും അതിനാൽ മറ്റൊരു ഭാഗം വരാനിരിക്കുന്ന പാഠങ്ങളിൽ ഔട്ട്പുട്ട് പ്രതിരോധം വിശകലനം ചെയ്യും